പ്രാരംഭ ഡെമോ നോക്കിയ ശേഷം നമുക്ക് ഈ പ്രോട്ടോക്കോളിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഈ പ്രോട്ടോക്കോൾ നന്നായി മനസിലാക്കാൻ കൂടുതൽ ഡെമോ ചെയ്യുന്നതിനുമുമ്പ് നമുക്ക് MQTT യെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസിലാക്കാം സ്റ്റാൻഡേർഡ് പബ്ലിഷ് സബ്സ്ക്രൈബിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കാരണം ഇത് പബ്ലിഷ് സബ്സ്ക്രൈബ് ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഞാൻ ബ്രോക്കറെ എടുക്കട്ടെ ഇതാണ് ബ്രോക്കർ പബ്ലിഷ് എന്നറിയപ്പെടുന്നവയുണ്ട് കൂടാതെ സബ്സ്ക്രൈബർ ഉണ്ട് അതിനാൽ ഇത് ഒരു അടിസ്ഥാന ആശയമാണ് MQ യുമായി ബന്ധപ്പെട്ട ഈ കാര്യം ഇന്നലെ നമ്മൾ കണ്ടു മറ്റ് ഓപ്പൺ സോഴ്സ് ബ്രോക്കർമാരും ഉണ്ട് മോസ്ക്വിറ്റോ എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ട് ഉബുണ്ടു മെഷീനുകളിൽ നിങ്ങളുടെ എല്ലാ പരിശോധനകൾക്കും മോസ്ക്വിറ്റോ ബ്രോക്കർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും വാസ്തവത്തിൽ ഇത് ഉബുണ്ടു ലിനക്സിന് ലഭ്യമാണ് ഇത് വിൻഡോസ് ഒഎസിനും മറ്റും ലഭ്യമാണ് അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വന്തം ബ്രോക്കർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും അത് ഓപ്പൺ സോഴ്സാണ് ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്വീകരിക്കാനും കൈകാര്യം ചെയ്യാനും കഴിയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് ഹോസ്റ്റിലും ഓപ്പൺ സോഴ്സ് ബ്രോക്കർ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് PAHO എന്ന് വിളിക്കുന്ന ക്ലയന്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും PAHO ഓപ്പൺ സോഴ്സായും ലഭ്യമാണ് അതിനാൽ നിങ്ങൾക്ക് എല്ലാ MQTT ക്ലയന്റുകൾക്കുമായി PAHO ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും ഞങ്ങൾ വിളിക്കുന്നതുപോലെ ഇവയെല്ലാം ക്ലയന്റുകളാണ് മാത്രമല്ല എംബഡ് ചെയ്ത ഉപകരണങ്ങളിൽ നിങ്ങൾക്ക് ഈ സമ്പൂർണ്ണ സിസ്റ്റം നിർമ്മിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഈ ബ്രോക്കറിന് റാസ്ബെറി പൈപ്പിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും കൂടാതെ പഹോ ഒരു ഓപ്പൺ സോഴ്സ് ക്ലയന്റായതിനാൽ നിങ്ങൾക്ക് അവ ടിസിപി ഐപി സ്റ്റാക്ക് ശരിയാണെങ്കിൽ എംബെഡ്ഡ്ഡ് ഉപകരണങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കാരണം ഈ MQTT യഥാർത്ഥത്തിൽ ആപ്ലിക്കേഷൻ ലെയറിൽ ഒരു ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ പ്രവർത്തിപ്പിക്കുകയും അതിന്റെ എല്ലാ ഗതാഗത ആവശ്യകതകൾക്കു ഇത് TCP ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇത് ഒരു ലളിതമായ കാര്യമാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ന്റെ ഒരു ലളിതമായ കേസ് എടുക്കുക ചില മൂല്യങ്ങൾ പറയട്ടെ ഒരു വിഷയം പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ചലനത്തെ ചിലമൂല്യങ്ങൾ സൂചിപ്പിക്കുന്നു വിഷയം ചലനമാണ് കാരണം ഇന്നലെ നമ്മൾ നോക്കിയപ്പോൾ മോഷൻ ചലനം ന്റെ ഉദാഹരണവും നോക്കിയിരുന്നു ഇത് ഒരു സംഖ്യയാകാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇത് എടുത്തു ഇത് ഒരു മികച്ച ഉദാഹരണമായി തുടരും ഇപ്പോൾ ബ്രോക്കർ അത് സൂക്ഷിച്ച് ഈ പ്രത്യേക വിഷയം സബ്സ്ക്രൈബുചെയ്യുന്ന എല്ലാ വരിക്കാർക്കും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ടോപ്പിക്ക് വിഷയം ഇവിടെ ചലനം ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ സബ്സ്ക്രൈബേറും പബ്ലിഷറും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതിനാൽ എൻഡ് ടു എൻഡ് കണക്ഷൻ പോലെ ഒന്നുമില്ല വാസ്തവത്തിൽ പബ്ലിഷേർ ആരാണെന്നും അവർ എവിടെയാണെന്നും വരിക്കാർക്ക് അറിയില്ല ആ പ്രത്യേക വിഷയത്തിലേക്ക് സബ്സ്ക്രൈബുചെയ്യുന്ന ഡാറ്റയ്ക്കായി അടിസ്ഥാനപരമായി അഭ്യർത്ഥിക്കുന്ന എല്ലാ നോഡുകൾക്കും യഥാർത്ഥത്തിൽ ആ ഡാറ്റ നൽകിയെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പാക്കേണ്ടത് ബ്രോക്കറുടെ ഉത്തരവാദിത്തമാണ് അതാണ് പ്രധാന കാര്യം സബ്സ്ക്രൈബർമാരില്ലെങ്കിൽ ബ്രോക്കർ ഡാറ്റ കൈവശം വയ്ക്കണോ എന്നത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു കാര്യം സബ്സ്ക്രൈബർ ഓഫ്ലൈനിൽ പോയാൽ എന്ത് സംഭവിക്കും എന്നതാണ് വരിക്കാരില്ലെങ്കിൽ എന്ത് സംഭവിക്കും

അത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് കൂടാതെ ഈ സാഹചര്യങ്ങൾ പരിപാലിക്കുന്നതിന് പ്രോട്ടോക്കോൾ നന്നായി യോജിക്കുന്നു ഒരു സബ്സ്ക്രൈബർമാരും ആശങ്കപ്പെടുന്നില്ല ഈ പ്രോട്ടോക്കോളിന്റെ ഭംഗി ഒരു പബ്ലിഷറും വിഷയത്തിന്റെ പേര് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കേണ്ടതില്ല എനിക്ക് ഒരു പുതിയ വിഷയം ആരംഭിച്ച് ബ്രോക്കറിൽ ഡാറ്റ പ്രസിദ്ധീകരിക്കാൻ ആരംഭിക്കാം ബ്രോക്കറുടെ ഐപി വിലാസവും പേരും എനിക്കറിയാമെങ്കിൽ എനിക്ക് അത് പബ്ലിഷ് ചെയ്യാൻ ആരംഭിക്കാം എനിക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് അത് ആരംഭിക്കാൻ കഴിയും വാസ്തവത്തിൽ ഇന്നലത്തെ ഡെമോയും അങ്ങനെയായിരുന്നു വിഷയനാമങ്ങളുടെ പേരിൽ ഞാൻ പഞ്ച് ചെയ്തു കുറച്ച് മൂല്യം നൽകുക അത് ബ്രോക്കറിൽ പബ്ലിഷ് ചെയ്യണം അതിനാൽ വിഷയം എന്താണെന്നതിനെക്കുറിച്ച് ഒരു മുൻ വിവരവുമില്ലാതെ ബ്രോക്കർമാർ അത് സ്വീകരിക്കുന്നുവെന്ന വസ്തുത മനസിലാക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നുവെന്ന അനുമാനങ്ങളൊന്നും ഇത് വ്യക്തമാക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇത് യഥാർത്ഥത്തിൽ അളക്കാവുന്ന രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് കാത്തിരിക്കാം നിങ്ങൾക്ക് hiveMQ അല്ലെങ്കിൽ മോസ്ക്വിറ്റോ ക്രമീകരിക്കാൻ കഴിയും പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ ഓപ്പൺ സോഴ്സ് ഉപകരണങ്ങൾ ക്രമീകരിക്കാൻ കഴിയും അങ്ങനെ ഒരു നിശ്ചിത സമയത്തിനുശേഷം വരിക്കാരില്ലെങ്കിൽ നിങ്ങൾ ആ വിവരങ്ങൾ നീക്കംചെയ്യും കാരണം വരിക്കാരില്ല അത് ഒരു നയമാണ് നിങ്ങൾക്ക് മറ്റൊരു നയം എടുക്കാം സബ്സ്ക്രൈബർമാർ ഇല്ലെന്നത് പരിഗണിക്കാതെ വരുന്ന ഏത് സന്ദേശവും ഞാൻ ആർക്കൈവുചെയ്യും അതിനാൽ വ്യത്യസ്ത ക്ലയന്റുകൾ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ സന്ദേശങ്ങളും ആർക്കൈവുചെയ്യുന്നത് തുടരുകയും അത് ഒരു ഡാറ്റാബേസിൽ സൂക്ഷിക്കുകയും ചെയ്യുക ചില പ്രത്യേക സമയങ്ങളിൽ ഒരു പ്രത്യേക വരിക്കാരനും ആ പ്രത്യേക വിഷയത്തിനായി തിരിയുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് ആർക്കൈവുചെയ്യപ്പെടും അതിനാൽ ധാരാളം സൌകര്യങ്ങൾ നിലവിലുണ്ട് നിങ്ങളുടെ ബ്രോക്കറിന്റെ കോൺഫിഗറേഷനെക്കുറിച്ചും നിങ്ങളുടെ ആവശ്യകതകളെയും അടിസ്ഥാനമാക്കി ക്ലയന്റിന്റെ കോൺഫിഗറേഷനെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാം അതിനാൽ വളരെ ശക്തമായി വരുന്ന പ്രധാന കാര്യം അതാണ് അതിനാൽ ആളുകൾക്ക് ഈ ചോദ്യം വ്യത്യസ്ത രീതികളിൽ ചോദിക്കാൻ കഴിയുന്ന സൊല്യൂഷൻ ആണോ ഇത് ഈ പ്രത്യേക പ്രോട്ടോക്കോൾ പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിറ്റി യഥാർത്ഥത്തിൽ ഇത് വളരെ അളക്കാവുന്നതാണെന്ന് അവകാശപ്പെടുന്നു സ്കേലബിലിറ്റി യഥാർത്ഥത്തിൽ ഉണ്ട് ഈ പ്രത്യേക പ്രോട്ടോക്കോൾ വിജയിക്കാനുള്ള പ്രധാന ആകർഷണങ്ങളിലൊന്നായ പബ്ലിഷറും സബ്സ്ക്രൈബേറും ഡീകപ്പിൾ ചെയ്യപ്പെടുന്നു എന്ന വസ്തുത കാരണം അവർ കാണുന്ന കാര്യം അളക്കാനാവും കാരണം സ്റ്റേറ്റ് വിവരങ്ങൾ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ഒന്നിലധികം ക്ലയന്റുകൾക്കും ഒന്നിലധികം സെർവറുകൾക്കുമിടയിൽ ധാരാളം മെമ്മറി ഉറവിടങ്ങൾ ലോക്കപ്പ് ചെയ്യേണ്ടതില്ല ഒരു ബ്രോക്കറേജ് എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാ ബിസിനസ്സും സന്ദേശങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾ സജ്ജമാക്കിയ ചില നയങ്ങളെ അടിസ്ഥാനമാക്കി സംഭരിക്കുകയോ ഫിൽട്ടറിംഗ് ചെയ്യുകയോ ചെയ്യേണ്ടതില്ല ചില ഫ്ലാഗുകൾ അടിസ്ഥാനമാക്കി സന്ദേശങ്ങൾ സംഭരിക്കുകയോ ഫിൽട്ടറിംഗോ ചെയ്യുക നിങ്ങൾ പാക്കറ്റുകൾ അയയ്ക്കുമ്പോൾ അത് ഊർജ്ജസ്വലമാക്കും അതിനാൽ ഇത് പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കിയുള്ളതാകാം അല്ലെങ്കിൽ ചില ഫ്ലാഗുകളെ അടിസ്ഥാനമാക്കിയുള്ളതാകാം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ ഇത് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്നതാണെന്ന് ആളുകൾ പറയുന്നു രണ്ടാമത്തെ കാരണം ഇത് ദശലക്ഷക്കണക്കിന് കണക്ഷനുകളിലേക്ക് പോകുമോ എന്ന് ഉറപ്പില്ല ഈ MQTT ന് അനുകൂലമായി വരുന്ന മറ്റൊരു കാര്യം ബ്രോക്കർ ഫിൽട്ടറിംഗ് വളരെ നല്ല കാര്യമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഫിൽട്ടറിംഗ് നടത്താം നിങ്ങൾക്ക് ഉള്ളടക്ക അധിഷ്ഠിത ഫിൽട്ടറിംഗ് നടത്താം കൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അടിസ്ഥാനമാക്കിയുള്ള ഫിൽട്ടറിംഗും ചെയ്യാം ഈ ഫിൽട്ടറിംഗിന്റെ വിശദാംശങ്ങളിൽ ഞാൻ പ്രവേശിക്കുകയില്ല ശേഷം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ളതിനുശേഷം ഇൻഡെൻറ് ചെയ്യപ്പെടും നിങ്ങൾക്ക് അടിസ്ഥാനപരമായി വളരെ ആവശ്യമുള്ള ഒരു വിഷയം ആവശ്യപ്പെടുന്ന ക്ലയന്റുകൾ ഉണ്ടായിരിക്കാം വൈൽഡ് കാർഡ് ഓപ്ഷനുകളുടെ ഡെമോ ഞങ്ങൾ കാണുമ്പോൾ ക്ലയന്റുകൾക്ക് യഥാർത്ഥത്തിൽ വളരെ നിർദ്ദിഷ്ട വിവരങ്ങൾ ചോദിക്കാമെന്നും ബ്രോക്കറിന് നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാമെന്നും നിങ്ങൾ കാണും നിങ്ങൾ എന്നോട് ഒരു നിർദ്ദിഷ്ട വിവരങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകില്ല അതും സാധ്യമാണ് അതിനാൽ ഫിൽറ്റർ സന്ദേശങ്ങൾ ബുദ്ധിപരമായി തരംതിരിക്കാനും സബ്സ്ക്രൈബർമാർ ആവശ്യപ്പെട്ടതെന്തും നൽകാനും ഇതിന് കഴിയും ഇത് നന്നായി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് വേഗത്തിൽ പോകാൻ താൽപ്പര്യപ്പെടുന്ന ചെറിയ നെറ്റ്വർക്കുകൾ നിങ്ങൾക്ക് ഡാറ്റ കൈമാറാൻ താൽപ്പര്യപ്പെടുന്ന ഒരു കൂട്ടം അയോട്ട് ഉപകരണങ്ങളുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഒരു ലളിതമായ ബ്രോക്കറും ഉണ്ട് ഒരു റാസ്ബെറി പൈപ്പ്ഗോയിൽ MQTT ഇൻസ്റ്റാൾ ചെയ്യുക ഒരു റാസ്ബെറി പൈയിലോ ബ്രോക്കർ റാസ്ബെറി പൈയിലോ ഒരു സാധാരണ ലാപ്ടോപ്പിലോ MQTT മോസ്ക്വിറ്റോ ഇൻസ്റ്റാൾ ചെയ്യുക ആശയവിനിമയം ആരംഭിക്കുന്നതിന് ഉപകരണങ്ങളിൽ പഹോ പ്രവർത്തിപ്പിക്കുക അതിനാൽ അതാണ് രണ്ടാമത്തെ കാരണം അതിനാൽ ഇവ 2 പ്രധാന കാരണങ്ങളാണ് സേവനത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല ചില കാര്യങ്ങളുണ്ട് MQTT നിങ്ങൾക്ക് മൂന്ന് നിലവാരത്തിലുള്ള സേവനം നൽകാൻ കഴിയും അതിനാൽ ഇവ മൂന്ന് സാധ്യതകളാണ് ആദ്യത്തേത് ലളിതമായി അർത്ഥമാക്കുന്നു ഇത് ഒരു മികച്ച ശ്രമമാണെന്ന് അർത്ഥമാക്കുന്നു രണ്ടാമത്തേത് ഒന്നോ അതിലധികമോ ഗ്യാരണ്ടി ലഭിക്കും എന്നത് ഒരു അപ്ലിക്കേഷന് എല്ലായ്പ്പോഴും ഒരെണ്ണം ലഭിക്കുകയുള്ളൂ എന്ന് പേര് സൂചിപ്പിക്കുന്ന ഒരു അളവുണ്ട് MQTT യെക്കുറിച്ചുള്ള നല്ല കാര്യമാണിത് ഇതെല്ലാം ചെയ്യാൻ ഇതിന് കഴിയും ട്രാൻസ്പോർട്ട് ലെയറിലാണ് ടിസിപി ഉള്ളതെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെഷനുണ്ട് തുടർന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുമുണ്ട് ആപ്ലിക്കേഷൻ ലെയറിന് ശരിക്കും MQTT ഉണ്ട് അത് ടിസിപി ഐപിയുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നു പക്ഷേ പരമ്പരാഗതമായി ഇത് ടിസിപി ഉപയോഗിക്കുന്നു ടിസിപി സ്വയം വിശ്വസനീയമായ പ്രോട്ടോക്കോൾ ആയിരിക്കുമ്പോൾ ഐപി പോലുള്ള വിശ്വസനീയമല്ലാത്ത പ്രോട്ടോക്കോളിനെ ആശ്രയിക്കുന്നുവെന്ന് പറയാം എന്തുകൊണ്ടാണ് ടിസിപി ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള QoS സിസ്റ്റം ആവശ്യകതകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉത്തരം വളരെ ചർച്ചാവിഷയമാണ് പക്ഷേ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോഴും ട്രാൻസ്പോർട്ട് ലെയറിലാണ് MQTT ന് ചുറ്റും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എന്താണെന്ന് ഇത് നിങ്ങൾക്ക് നൽകാൻ പോകുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ഉയർന്ന വിശ്വാസ്യത വേണമെങ്കിൽ സേവന ആവശ്യകതയുടെ മൂന്ന് തരം അവതരിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ MQTT QoS യഥാർത്ഥത്തിൽ നിലവിലുണ്ടെന്നതിന്റെ ഒരു പ്രധാന ചോദ്യമാണിത് അതിനാൽ MQTT യെക്കുറിച്ച് നല്ല കാര്യങ്ങളുണ്ട് ആളുകൾ ക്ലയന്റിനെക്കുറിച്ച് സംസാരിക്കുന്നു ക്ലയന്റ് അടിസ്ഥാനപരമായി ഏത് ഉപകരണവും ആകാം അതിനാൽ അടിസ്ഥാന സിസ്റ്റത്തിലെ മൈക്രോകൺട്രോളർ മുതൽ ഏത് നൂതന മെഷീനിലേ ഒരു ഉപകരണമാകാം ഇത് നെറ്റ്വർക്ക് കണക്ഷനുള്ള ഒരു പൂർണ്ണ വലുപ്പ സെർവറാകാം അതിനാൽ ടിസിപി ഐപി സ്റ്റാക്ക് പ്രവർത്തിക്കുന്ന മൈക്രോകൺട്രോളർ ഉള്ള ഏത് ഉപകരണവും ആവാം MQTT യും ഉണ്ട് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾ ആണ് MQTT അതിനാൽ MQTT ക്ലയന്റ് എന്നാൽ MQTT എന്നാണ് അർത്ഥമാക്കുന്നത് ഈ മൈക്രോകൺട്രോളർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് ടിസിപി ഐപി സ്റ്റാക്ക് ഉണ്ട് ടിസിപി ഐപി സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു നെറ്റ്വർക്ക് സ്റ്റാക്ക് ഉണ്ട് അതിനാൽ ഇത് സംയോജിപ്പിക്കാൻ അനുവദിക്കുക ടിസിപി ഐപി പ്രോട്ടോക്കോൾ സ്റ്റാക്ക് പ്രോട്ടോക്കോൾ കൂടാതെ ഈ പ്രോട്ടോക്കോൾ സ്റ്റാക്ക് പ്രവർത്തിപ്പിക്കാൻ ഒരു നെറ്റ്വർക്ക് ഉണ്ട് അതിനാൽ ഒരു ക്ലയന്റിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് ഇതാണ് MQTT ബ്രോക്കറും ഒരു ഉപകരണമാണ് ഇത് സാധാരണയായി സന്ദേശങ്ങൾ സംഭരിക്കാൻ വളരെയധികം കഴിവുള്ള ഒരു സെർവർ പോലെയാകാം അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഒരു തരം സെർവർ ഗ്രേഡ് മെഷീനായിരിക്കണം അത് പ്രധാനമായും സന്ദേശങ്ങൾ സ്വീകരിക്കാൻ പ്രാപ്തമാണ് ഇതിന് സന്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയും അവ ഫിൽട്ടർ ചെയ്യാനും സംഭരിക്കാനും സന്ദേശങ്ങൾ നൽകാനും കഴിയും അതിനാൽ വരിക്കാർക്ക് സന്ദേശങ്ങൾ നൽകുക അതിനാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇത് ചെയ്യേണ്ടതുണ്ട് വ്യക്തമായും മുഴുവൻ സിസ്റ്റവും ഈ സേവന നിലവാരത്തെ പിന്തുണയ്ക്കുന്നു സെർവർ വളരെ വിശ്വസനീയമായ ഒന്നായിരിക്കണം ഇതാണ് ഹാർഡ്വെയറിന്റെ ആവശ്യകത തീർച്ചയായും ഇത് നിരീക്ഷിക്കുന്നത് എളുപ്പമുള്ളതാവണം മാത്രമല്ല ഇത് ഒരു പരാജയ പ്രതിരോധശേഷിയുള്ളതും ആയിരിക്കണം അതിനാൽ നിങ്ങൾ വളരെ വിശ്വസനീയമെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ പരാജയത്തെ പ്രതിരോധിക്കുന്നതായിരിക്കണം അതിനാൽ മുഴുവൻ പ്രവർത്തനവും ആരംഭിക്കുന്നത് ഒരു നിശ്ചിത സന്ദേശങ്ങളിലൂടെയാണ് MQTT ൽ നിരവധി സന്ദേശങ്ങളുണ്ട് നിങ്ങൾ കണക്റ്റുചെയ്യുന്ന ഏതെങ്കിലും പബ്ലിഷർ പബ്ലിഷ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുമുമ്പ് മെസ്സേജ് അല്ലെങ്കിൽ കണക്റ്റുചെയ്യുന്നതിന് മുമ്പായി അയക്കുന്ന മെസ്സേജ് അതിനാൽ ഈ കണക്റ്റ് ക്ലയന്റിൽ നിന്ന് ഒരു ബ്രോക്കറിലേക്ക് ആണ് പ്രവർത്തിക്കുന്നത് ക്ലയന്റ് പ്രസാധകനോ വരിക്കാരനോ ആണ് ഒന്നുകിൽ ഒരു പബ്ലിഷർ അല്ലെങ്കിൽ സ്ലാഷ് സബ്സ്ക്രൈബർ ഇവിടെ ഒരു ബ്രോക്കർ ഉണ്ട് അതിനാൽ ഇത് ഒരു സന്ദേശത്തിൽ ആരംഭിക്കുന്നു കണക്റ്റ് എന്ന് വിളിക്കുന്ന സന്ദേശം ഇതിനു ബ്രോക്കർ കണക്ഷൻ കിട്ടിയാൽ 'കൊണാക്ക്' സന്ദേശം തിരിച്ചു നൽകും അതിനാൽ കൊണാക്ക് കണക്റ്റ് ആദ്യ ഘട്ടമായി നടക്കും നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനോ സബ്സ്ക്രൈബുചെയ്യുന്നതിനോ മുമ്പ് ഈ ആദ്യ ഘട്ടം ചെയ്യുകയാണെങ്കിൽ നെറ്റ് വർക്ക് വിലാസ വിവർത്തന തരത്തിലുള്ള ഫയർവാളുകളിലൂടെ ഇത് തുളച്ചുകയറും ഫയർവാളുകളിൽ MQTT പ്രവർത്തിക്കുമോ ഉത്തരം അതെ എന്നാണ് കാരണം എംക്യുടിടി ബ്രോക്കറും ക്ലയന്റും അടിസ്ഥാനപരമായി കണക്റ്റ് കൊണാക്ക് എന്നിവയിലൂടെ ആരംഭിക്കുന്ന ആദ്യ ലെവൽ സ്ഥാപിക്കുന്നു അതിനാൽ ഫയർവാൾ ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ അത്യാവശ്യമായ റൂട്ടറുകളുടെ പിന്നിൽ എംക്യുടിടി ക്ലയന്റുകൾ ഉണ്ടാകുന്നത് വളരെ എളുപ്പമാണ് അതിനാൽ അതൊരു നല്ല കാര്യമാണ് കണക്ടിനു നേരത്തെ പറഞ്ഞ പോലെ ഒരു നിശ്ചിത സൈക്കിൾ ഉണ്ടാകും അതിനാൽ ഒരു കണക്റ്റിനുള്ള സൈക്ലിന്റെ വളരെ രസകരമായ ഒരു സെറ്റ് ഒരു ക്ലയന്റ് ഐഡിയും ക്ലീൻ സെഷൻ എന്ന് വിളിക്കപ്പെടുന്നതുമാണ് ഞാൻ അത് ഒരു നിമിഷത്തിനുള്ളിൽ വിശദീകരിക്കും പിന്നെ ഉപയോക്തൃനാമം അപ്പോൾ ഒരു പാസ്വേഡ് ഉണ്ടാകും അതിനുശേഷം ലാസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ട് ലാസ്റ് വിഷയമായിരിക്കും അത് സന്ദേശവും നിലനിർത്തും അതിനാൽ എല്ലാം സജീവമായി നിലനിർത്തുക എന്നൊരു കാര്യമുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി ക്ലയന്റ് ഐഡി ഓരോ എംക്യുടിടി ക്ലയന്റുകളുടെയും അടിസ്ഥാനപരമായി ഐഡന്റിഫയറാണ് ഞാൻ ക്ലയന്റ് എന്ന് പറയുമ്പോൾ ഇത് ബന്ധിപ്പിക്കും ഇത് രണ്ടും വരിക്കാരനോ പ്രസാധകനോ ആകാം അതിനാൽ ക്ലയന്റ് ക്ലീൻ സെഷൻ ഒരു രസകരമായ ഓപ്ഷനാണ് ഒരു പബ്ലിക് ഉണ്ടെങ്കിൽ ബ്രോക്കറിൽ സന്ദേശം സംഭരിക്കണമെന്നും അല്ലെങ്കിൽ ഡാറ്റ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസാധകനുണ്ടെങ്കിൽ അത് നീക്കംചെയ്യണമെന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു കാരണം നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വിഷയത്തിന്റെ പേര് സൂചിപ്പിക്കുന്നില്ല പക്ഷേ ബ്രോക്കർ യഥാർത്ഥത്തിൽ ആ സന്ദേശം തന്നെ നിലനിർത്തേണ്ടതുണ്ടെന്ന് ഉറപ്പാക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഈ സെഷൻ ഐഡി ഉപയോഗിക്കണം എനിക്ക് ഒരു സെഷൻ സൃഷ്ടിക്കാൻ ആഗ്രഹമുണ്ട് ഈ സെഷൻ ഉപയോഗിച്ച് വരുന്ന സന്ദേശങ്ങളെല്ലാം ബ്രോക്കറിൽ നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു കണക്റ്റ് സന്ദേശത്തിന്റെ ഈ പ്രത്യേക ഫീൽഡ് ഉപയോഗിച്ച് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണിത് അതിനാൽ നിങ്ങൾ അത് ക്ലീൻ സെഷനെ തെറ്റായി സജ്ജമാക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ സന്ദേശം ബ്രോക്കറിൽ സംഭരിക്കപ്പെടും എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ അത് സത്യത്തിന് തുല്യമാണെന്ന് പറഞ്ഞാൽ ആ സന്ദേശം അയക്കുന്നു സ്വീകരിക്കുന്നവർ ഇല്ലെങ്കിൽ ആ സന്ദേശം നീക്കംചെയ്യാം എന്നിരുന്നാലും QoS ലെവലുകൾ എന്നറിയപ്പെടുന്നവയുണ്ട് അതിനാൽ ഇത് QoS ലെവലുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് അതിലേക്ക് വരുമ്പോൾ അതിന്റെ രസകരമായ കാര്യം എന്നെ വേഗത്തിൽ മുഴുവൻ കണക്റ്റുചെയ്യാൻ അനുവദിക്കും ക്ലീൻ സെഷൻ ട്രൂവിന് തുല്യവും നിങ്ങളുടെ QoS ലെവൽ 0 ഉം ആണ് ഇവ മൂന്ന് ലെവലുകൾ ആണ് ക്ലീൻ സെഷൻ ട്രൂവിന് തുല്യവും QoS ലെവലുകൾ 0 ന് തുല്യവുമാണെങ്കിൽ തീർച്ചയായും ബ്രോക്കർ ഡാറ്റ കൈവശം വയ്ക്കില്ല ക്ലീൻ സെഷൻ ഫാൾസ് നു തുല്യമാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സിസ്റ്റം നിലനിർത്താൻ താൽപ്പര്യപ്പെടുന്നു എന്നാണ് സന്ദേശം ബ്രോക്കറിൽ സൂക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നിട്ട് അത് സ്ഥിരമായ ഒരു സെഷനായി മാറും QoS പൂജ്യമാണെങ്കിൽ QoS ഒന്നും രണ്ടും തുല്യമാണെങ്കിൽ എന്തുസംഭവിക്കുമെന്നത് വീണ്ടും രസകരമാണ് അതിനാൽ ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മൾ എടുക്കും അതിനാൽ ഉപയോക്തൃനാമവും പാസ്വേഡും ഉണ്ട് ഇത് പൂർണ്ണമായും ഒരു പ്രാമാണീകരണ കാഴ്ചപ്പാടാണ് MQTT മാതൃകയിൽ ലാസ്റ് വിൽ സന്ദേശങ്ങൾ വീണ്ടും രസകരമായിരിക്കും കാരണം ക്ലയന്റുകളെ ഷട്ട്ഡൌൺ നു MQTT അനുവദിക്കുന്നു നിങ്ങൾ എനർജി ഹാർവെസ്റ്റിംഗ് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡാറ്റ അയയ്ക്കാനും അവരുടെ സന്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും അവയുടെ മൂല്യം പ്രസിദ്ധീകരിക്കുന്നതിനും MQTT ഉപയോഗിക്കാനും എനർജി ഹാർവെസ്റ്റിംഗ് അടിസ്ഥാനമാക്കിയുള്ള നോഡുകൾ ശ്രമിക്കുന്നു അവ വളരെ വേഗത്തിൽ അടച്ചുപൂട്ടുകയും അത്തരം സാഹചര്യങ്ങളിൽ ഷട്ട്ഡൌൺ ചെയ്യുന്നത് വളരെ മോശമാവുകയും ചെയ്യും താഴേയ്ക്ക് പോകുന്ന അവസാനത്തേതാണെന്ന് ക്ലയന്റിന് ലാസ്റ്റ് സന്ദേശം നൽകാൻ വളരെ എളുപ്പത്തിൽ സാധ്യമാണ് അതിനാൽ ഇത് എന്റെ അവസാന ഇച്ഛയും നിയമവും ആയി എടുത്ത് ഇതിനെല്ലാം ഉപയോഗിക്കുക ഈ വിഷയത്തിന് കീഴിൽ എനിക്ക് യഥാർത്ഥത്തിൽ നൽകാൻ കഴിയുന്ന സെൻസർ മൂല്യമാണിത് അതിനാൽ ലാസ്റ് വിൽ വിഷയത്തിന്റെ പേര് അവിടെയുണ്ട് അപ്പോൾ ഒരു അവസാന സന്ദേശമുണ്ട് അത് നിങ്ങൾ ഇടാൻ ആഗ്രഹിക്കുന്ന മൂല്യമാണ് അത് കണക്റ്റുചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിയായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ബ്രോക്കർ റിക്വസ്റ്റും സാധ്യമാണ് ഈ അവസാന വിൽ സന്ദേശം നിങ്ങളോടൊപ്പം സൂക്ഷിക്കുകയും ഞാൻ നൽകുന്ന ഈ പ്രത്യേക വിഷയം സബ്സ്ക്രൈബുചെയ്യുന്ന ആർക്കും ഇത് നൽകാം ഞാൻ തിരിച്ചുവരാൻ പോകുന്നില്ല എന്നതിനാൽ എനിക്ക് ഊർജ്ജമില്ല ഒരുപക്ഷേ അല്ലെങ്കിൽ എന്റെ തന്നെ ഒരു തകരാറുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്റെ സോഫ്റ്റ്വെയറിലെ ചില പ്രേശ്നങ്ങൾ അടച്ചുപൂട്ടാൻ പോകുന്നു സിസ്റ്റം തിരികെ വരാൻ പോകുന്നില്ല എന്ന കാരണത്താൽ നിങ്ങൾക്ക് എല്ലാ വരിക്കാരോടും ആ സന്ദേശം ലഭിക്കാൻ ആവശ്യപ്പെടാം അതിനാൽ ഇത് ലാസ്റ് വിൽ ആയി നിലനിർത്തുക എന്നതിനർത്ഥം അത് ബ്രോക്കറിൽ നിലനിർത്തുന്നു എന്നാണ് കീപ് അലൈവ് എന്നത് ഒരു നല്ല കാര്യമാണ് പതിവായി സൂക്ഷിക്കുന്ന സന്ദേശങ്ങൾ അയച്ചുകൊണ്ട് ക്ലയന്റും ബ്രോക്കറും തമ്മിലുള്ള പിംഗിന് തുല്യമായ എന്തെങ്കിലും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും ക്ലയന്റും ബ്രോക്കറും തമ്മിലുള്ള ലിങ്ക് സജീവമാണെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണിത് അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പുള്ള ആദ്യ ഘട്ടമാണ് ഈ കണക്റ്റ് കൊണാക്ക് എന്നിട്ട് സേവനത്തിന്റെ നിലവാരത്തെ അടിസ്ഥാനമാക്കി നിരവധി നല്ല കാര്യങ്ങൾ സംഭവിക്കും ഉദാഹരണത്തിന് നിങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പബ് തിരികെ ലഭിക്കും അത് ഒരു തവണയെങ്കിലും സംഭവിക്കാവുന്ന ഏറ്റവും ലളിതമായ ഒരു പബ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കും ആപ്ലിക്കേഷന് യഥാർത്ഥത്തിൽ ഒരു പകർപ്പ് മാത്രമേ നൽകിയിട്ടുള്ളൂവെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതിനാൽ ഈ QoS 2 സന്ദർശിക്കുന്നതിന് നിങ്ങൾ കൂടുതലായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നാൽ പ്രസിദ്ധീകരണമൊന്നും സംഭവിക്കുന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തിരികെ ലഭിക്കില്ല അതിനാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന് ഞങ്ങളുടെ പരീക്ഷണങ്ങൾ കാണുക നിങ്ങൾ ഒരു പ്രസിദ്ധീകരണം നടത്തുമ്പോൾ QoS 0 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തിരികെ ലഭിക്കില്ല QoS 1 ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതായത് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പബ് തിരികെ ലഭിക്കും കൂടാതെ QoS 2 Pub comp ൽ അവസാനിക്കുന്ന അധിക സന്ദേശങ്ങളുമായി അവസാനിക്കും QoS നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുമ്പ് ഈ ഭാഗം നമുക്ക് നോക്കാം തുടർന്ന് പ്രോട്ടോക്കോളിന്റെ മറ്റ് വശങ്ങൾ മനസിലാക്കുന്നത് തുടരാം ഇപ്പോൾ ഈ പ്രോട്ടോക്കോൾ മനസിലാക്കാൻ പോകുന്നതിനുമുമ്പ് നമുക്ക് ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് മാറി കുറച്ച് പരീക്ഷണങ്ങൾ നടത്താം സേവനത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരീക്ഷണം നമുക്ക് നോക്കാം അതിനാൽ ഇതാണ് സബ്സ്ക്രൈബർ സ്ക്രീൻ മോസ്ക്വിറ്റോയും പഹോയും പ്രവർത്തിക്കുന്ന ഒരൊറ്റ ലാപ്ടോപ്പിലാണ് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ അതിനാൽ നിങ്ങൾ മോസ്ക്വിറ്റോയും പഹോയും ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷണങ്ങളെല്ലാം സ്വയം നടത്താം അതിനാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആദ്യ സ്ക്രീൻ ഇതാണ് സബ്സ്ക്രൈബർ സ്ക്രീൻ അതിനാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രധാനമായും മൂന്ന് QoS ലെവലുകൾ പരീക്ഷിക്കാൻ പോകുകയാണ് നമുക്ക് QoS 0 പരീക്ഷിക്കാം അതിനാൽ നമുക്ക് കമാൻഡ് നോക്കാം അതിനാൽ ആരംഭിക്കുന്നതിനായി എല്ലാം മായ്ക്കാം ഇവിടെ മോസ്ക്വിറ്റോ സബ്സ്ക്രൈബുചെയ്യുന്ന സന്ദേശം നിങ്ങൾക്ക് കാണാം അതിനാൽ ആദ്യം ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്യുക എന്നതാണ് അതിനാൽ നമുക്ക് ഇവിടെ മോഡലിലേക്ക് മടങ്ങാം നമുക്ക് ഒരു വരിക്കാരന്റെ അവകാശം ഉണ്ടായിരിക്കാം അതിനാൽ വരിക്കാരന് താൽപ്പര്യമുള്ള ഒരു വിഷയം ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ഞങ്ങൾ ഇവിടെ ഒരു കോൺഫിഗറേഷൻ നടത്തുകയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആദ്യ ഘട്ടമാണ് SPE ലേക്ക് പോകുന്നത് അതിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സന്ദേശങ്ങൾ കണക്റ്റ് അയയ്ക്കുന്നു അത് കൊണാക്കിൽ തിരിച്ചെത്തുന്നു തുടർന്ന് സബ്സ്ക്രൈബ് അയച്ച് സബ് ബാക്ക് ആയി സ്വീകരിച്ചു ഇത് കണക്റ്റുചെയ്തു തുടർന്ന് ഇത് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു അതിനർത്ഥം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ആദ്യപടി ഇത് പ്രധാനമായും ചെയ്യുക എന്നതാണ് ഞങ്ങൾ ഇത് പൂർത്തിയാക്കിയിട്ടില്ല ഇത് ചെയ്തുകഴിഞ്ഞാൽ ഇത് ഇപ്പോൾ പിന്നോട്ട് നീങ്ങുന്നു ഇതാണ് നിങ്ങളുടെ ക്ലയന്റ് ഇതാണ് ബ്രോക്കർ അത് ഒരു സബ്സ്ക്രൈബ് സന്ദേശം അയയ്ക്കുകയും അതിന് സബ്സ്ക്രൈബ് എന്ന് വിളിക്കുകയും തുടർന്ന് സബ് ബാക്ക് ചെയ്യുകയും ചെയ്തു ഇതിനെ എഴുതട്ടെ SUBSCRIBE SUBBACK ഇതാണ് സംഭവിക്കുക അതിനാൽ ഇത് കണക്റ്റുചെയ്യുമെന്ന് നിങ്ങൾ ഊഹിക്കണം കോണാക്ക് സബ്സ്ബാക്ക് പോലെ തന്നെ അതിനുശേഷം അത് പബ് തിരികെ പ്രസിദ്ധീകരിക്കും അതിനാൽ ഇതെല്ലാം നിങ്ങൾ കാണണം അതിനാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാം അതിനാൽ ഞങ്ങൾ ചെയ്ത രണ്ടാമത്തെ ഘട്ടം ഒരു പിംഗ് അഭ്യർത്ഥന അയയ്ക്കുക എന്നതാണ് പിങ്ങിന് പിംഗ് പ്രതികരണം ലഭിച്ചു ക്ലയന്റും ബ്രോക്കറും കണക്റ്റുചെയ്യുന്നത് തുടരുന്നു മാത്രമല്ല ലിങ്ക് മുകളിലാണെന്നും രണ്ട് സിസ്റ്റങ്ങളും സജീവമാണെന്നും അവർ ഉറപ്പാക്കുന്നു ഇപ്പോൾ നമുക്ക് മറ്റൊരു സ്ക്രീനിലേക്ക് പബ്ലിഷർ സ്ക്രീൻ നോക്കാം അതിനാൽ ഇപ്പോൾ ഞങ്ങൾ പബ്ലിഷറിന്റെ മുന്നിലാണ് ഇത് പബ്ലിഷറിന്റെ സന്ദേശമാണ് അതിനാൽ വിഷയം MQTT ഉം I T നായുള്ള സന്ദേശങ്ങളുടെ രൂപകൽപ്പനയും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഞങ്ങൾ ഇത് പതുക്കെ വീണ്ടും ചെയ്യട്ടെ കണക്റ്റും കോണാക്കും വീണ്ടും വരുന്നു നിങ്ങൾ വീണ്ടും പ്രസിദ്ധീകരിച്ചു ഒന്നും തിരികെ വരുന്നില്ല സെന്റിങ് ഡിസ്കണക്ട് എന്ന് പറയുന്നു അതിനാൽ ഇത് ഒരു QoS 0 സന്ദേശമാണ് ഉപയോഗിച്ച വിഷയം MQTT ആണൊ എന്ന് നമുക്ക് നോക്കാം അതിനാൽ വരിക്കാരുടെ ഭാഗത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ നോക്കാം അതുകൊണ്ട് എന്തു സംഭവിച്ചു ഇതിന് MQTT പോലുള്ള ഒരു സന്ദേശവും MQTT എന്ന വിഷയവും ലഭിച്ചു അത് പിംഗ് അഭ്യർത്ഥനയും പിംഗ് പ്രതികരണവും സജീവമായി നിലനിർത്തുന്നത് തുടരുന്നു